ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ക്ലാസിലേക്ക് തിരികെ സ്വാഗതം ഞങ്ങൾ പലതരം ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ക്ഷമിക്കണം ഞങ്ങൾക്ക് ഒരു ഭാഗം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അതിനാൽ ഞാൻ ആദ്യം അതിലേക്ക് പോകും എന്നിട്ട് നമുക്ക് സെപറേഷനിലേക്ക് പോകാം അതിനാൽ നമുക്ക് അതിൽ തുടരാം ചില റീസോർസസ് ഇവിടെയുണ്ട് ഞാൻ പരാമർശിച്ച ചില സോർസസ് ചില പുസ്തകങ്ങൾ ഇവയാണ് വീണ്ടും ഞാൻ ബ്രിസ്കോ ഷുലർ ക്ലോസ് Briscoe Schuler and Claus എന്നിവരുടെ പുസ്തകത്തിലൂടെ കടന്നുപോയി പക്ഷേ ഞാൻ അതിൽ നിന്ന് ഒന്നും കൂടുതലായി എടുത്തിട്ടില്ല അതിനാൽ ഈ സ്ലൈഡുകളിൽ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള പരാമർശം നിങ്ങൾ കാണില്ല പക്ഷേ ഞാൻ അത് പഠിച്ചിട്ടുണ്ട് അതിനാൽ ഞാൻ അത് ഇവിടെ ഇടേണ്ടത് നിർബന്ധമാണ് ഞാൻ പരാമർശിച്ച മറ്റൊരു പുസ്തകം ഗോമസ് മെജിയ ബാൽകിൻ കാർഡി Gomez Mejia Balkin and Cardy എന്നിവരുടെതാണ് കൂടാതെ ഇത് വളരെ നല്ല പുസ്തകമാണ് കൂടാതെ ഞാൻ അതിനെ പരാമർശിക്കുന്നു കൂടാതെ നിങ്ങൾക്കത് വാങ്ങാനും കഴിയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് വിപണിയിൽ സൌജന്യമായി ലഭ്യമാണ് ആരോ എന്നോട് സോഫ്റ്റ്കോപ്പി ആവശ്യപ്പെട്ടിരുന്നു അത് ലഭ്യമാണ് സോഫ്റ്റ് കോപ്പികൾ വിൽക്കുന്ന ഒരു വെബ്സൈറ്റും എനിക്കറിയില്ല എനിക്ക് ശരിക്കും അറിയില്ല പക്ഷേ നിങ്ങൾ ഒരെണ്ണം കണ്ടാൽ ഫോറം വഴി എന്നെ അറിയിക്കൂ കുറച്ചു ദിവസം ലീവ് എടുക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ കവർ ചെയ്യാൻ ആഗ്രഹിച്ചതും എന്നാൽ കഴിയാതിരുന്നതുമായ ഒരു ബെനഫിറ്റ് സിക് ലീവ് എന്ന ആശയം ആയിരുന്നു ഇപ്പോൾ സിക്ക് ലീവ് എന്നത് ഒരു ജീവനക്കാരന് ജോലി ചെയ്യാനുള്ള അവന്റെ അല്ലെങ്കിൽ അവളുടെ കഴിവിനെ തടസ്സപ്പെടുത്തുന്ന ഒരു ഹ്രസ്വകാല രോഗമോ വൈകല്യമോ അനുഭവിക്കുമ്പോൾ ഓരോ ദിവസവും മുഴുവൻ ശമ്പളവും നൽകുന്നു അസുഖ അവധി എന്ന ആശയത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം നിയമം അനുശാസിക്കുന്ന ഒരു ആനുകൂല്യമാണിത് കൂടാതെ തൊഴിലുടമകൾ എന്ന നിലയിൽ ഞങ്ങളുടെ ജീവനക്കാർക്ക് ഏതെങ്കിലും രോഗങ്ങളിൽ നിന്ന് സുഖം പ്രാപിക്കാൻ കുറച്ച് സമയം നൽകേണ്ടതുണ്ടെന്ന് നിങ്ങൾക്കറിയാം നമ്മളെല്ലാം മനുഷ്യരാണ് ഞങ്ങൾ രോഗബാധിതരാകുന്നു ഹ്യൂമൻ റിസോഴ്സ് മാനേജർമാരായി ഞങ്ങൾ എങ്ങനെയാണ് അസുഖ അവധി കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ വെൽനെസ് പേ പ്രോഗ്രാമുകൾ സ്ഥാപിച്ചേക്കാം വെൽനെസ് പേ പ്രോഗ്രാമുകൾ അസുഖം വരാത്ത ആളുകൾക്ക് പ്രോത്സാഹനങ്ങൾ നൽകുന്നു വെൽനസ് പേ പ്രോഗ്രാമുകളുടെ വലിയ പ്രശ്നം ധാർമ്മിക പ്രശ്നങ്ങളാണ് രോഗം പിടിപെടുന്നത് മിക്കപ്പോഴും അശ്രദ്ധമായാണ് ഒരാളുടെ ആരോഗ്യത്തോടുള്ള അശ്രദ്ധയാണ് ഇതിന് കാരണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആരോഗ്യം നിലനിർത്തുകയും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോഴും പ്രോത്സാഹനങ്ങൾ നൽകാം പക്ഷേ പലപ്പോഴും ഫ്ലു പോലെ ലളിതമായ ഒന്ന് എപ്പോഴും ചുറ്റും ഉണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്തും നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ തല മൂക്ക് തൊണ്ട എല്ലാം നിങ്ങൾ മറയ്ക്കുന്നു പക്ഷേ നിങ്ങൾക്ക് അപ്പോഴും ബഗ് ലഭിക്കും കൂടാതെ അടുത്ത 4 അല്ലെങ്കിൽ 5 ദിവസത്തേക്ക് നിങ്ങൾ കടുത്ത പനിയിലാണ് നിങ്ങൾ കുറ്റക്കാരാവരുത് അല്ലെങ്കിൽ ഞാൻ അതിനെ വിപരീതമായി നോക്കുകയാണെങ്കിൽ നിങ്ങളേക്കാൾ പ്രായം കുറഞ്ഞവരും മികച്ച പ്രതിരോധശേഷിയുള്ളവരുമായ ഒരാൾ അവരുടെ ശരീരഘടന അത്തരത്തിലുള്ളതായതിനാൽ അധികമായി പ്രതിഫലം നൽകേണ്ടതില്ല അതിനാൽ ഇക്കാര്യത്തിൽ ഒരു ധാർമ്മിക പ്രശ്നമുണ്ട് പക്ഷേ സംഘടനകൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നാണിത് പക്ഷേ ശരി അവർക്ക് ചില വെൽനസ് പ്രോഗ്രാമുകൾ സ്ഥാപിക്കാൻ കഴിയും ആരോഗ്യത്തോടെയിരിക്കാനും സുഖമായിരിക്കാനും ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് കഴിയും വ്യക്തിഗത ജീവിതത്തിലും കുടുംബ ആവശ്യങ്ങളിലും ജോലി സന്തുലിതമാക്കാൻ ജീവനക്കാരെ സഹായിക്കുന്നതിന് വഴക്കമുള്ള പ്രവൃത്തി സമയം നാമെല്ലാവരും രോഗികളാകുന്നു നമുക്കെല്ലാവർക്കും കുടുംബ ആവശ്യങ്ങൾ ഉണ്ട് നമ്മൾ എല്ലാവരും പലപ്പോഴും സംസാരിക്കുന്ന തൊഴിൽ ജീവിത ബാലൻസ് നേടേണ്ടതുണ്ട് കൂടാതെ ഈ സന്തുലിതാവസ്ഥ കൈവരിക്കാൻ ഞങ്ങൾക്ക് ഒരു അവസരം ലഭിച്ചാൽ സ്ഥാപനത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത വർദ്ധിക്കുന്നു കൂടാതെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാവുന്ന സമ്മർദ്ദം കുറയുന്നു അതിനാൽ ഇത് ഒരു ചെയിൻ പ്രതികരണമാണ് ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ എന്റെ സ്ഥാപനം എന്നോട് പെരുമാറുന്ന രീതിയിൽ എനിക്ക് സുഖം തോന്നുന്നുവെങ്കിൽ വ്യക്തിപരമായ ചില പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യാൻ എന്റെ സ്ഥാപനം എനിക്ക് കുറച്ച് സമയം അനുവദിക്കുകയാണെങ്കിൽ ആ കണക്കിൽ എനിക്ക് സമ്മർദ്ദം അനുഭവപ്പെടില്ല കൂടാതെ ഞാൻ ആ സമ്മർദ്ദം എടുക്കുന്നില്ലെങ്കിൽ സമ്മർദ്ദത്തിന്റെ മൊത്തത്തിലുള്ള നില കുറയും കൂടാതെ ഞാൻ കൂടുതൽ കാലം ആരോഗ്യവാനായിരിക്കും എനിക്ക് ഇതിനകം ഉള്ള പ്രശ്നങ്ങൾക്ക് പുറമേ കൈകാര്യം ചെയ്യാൻ എനിക്ക് ഒരു പ്രശ്നം കൂടി ആവശ്യമില്ല അതിനാൽ അത് എല്ലായ്പ്പോഴും സഹായിക്കുന്നു നിങ്ങൾക്കറിയാമോ അത് ആളുകളെ പ്രതിബദ്ധതയോടെ നിലനിർത്തുന്നു സിക്ക് ലീവ് എൻക്യാഷബിൾ ലീവായി ലഭിക്കുന്നത് നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് വളരെ വഴുവഴുപ്പുള്ള പ്രദേശമാണ് അതിനാൽ പല സംഘടനകൾക്കും അസുഖ അവധി ദിവസങ്ങൾ എന്ന ആശയം ഉണ്ട് ഒരാൾക്ക് അസുഖ അവധിയായി ശേഖരിക്കാവുന്ന ഒരു നിശ്ചിത എണ്ണം ദിവസങ്ങൾ കൂടാതെ ഈ അസുഖ അവധി എടുക്കാൻ നിങ്ങൾ അവരെ അനുവദിക്കുക അവർക്ക് അസുഖം വന്നില്ലെങ്കിൽ ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം കൂടാതെ നാലാം വർഷത്തിൽ അവർക്ക് പെട്ടെന്ന് ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടാകുന്നു ഒരു മാസം അവർക്ക് ഹാജരാകാനാവില്ല ഒരു നിശ്ചിത പോയിന്റ് വരെ അത് ചെയ്യാൻ അവരെ അനുവദിക്കണം അതിനാൽ പല സംഘടനകളും ഇത് അനുവദിക്കുന്നു കൂടാതെ ഇത് ഞങ്ങളുടെ മെഡിക്കൽ അത്യാഹിതങ്ങളെ മറികടക്കാൻ സഹായിക്കുന്നു അതിനാൽ നിങ്ങൾ ഓർഗനൈസേഷനിൽ നിന്ന് പുറത്തുപോകുമ്പോൾ നിരവധി ഓർഗനൈസേഷനുകളും ഈ അസുഖ അവധി നിങ്ങളെ എൻക്യാഷ് ചെയ്യാൻ അനുവദിക്കുന്നു ഒന്നുകിൽ വിരമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സംഘടനയിലേക്ക് മാറുന്ന സമയത്ത് അതിനാൽ നിങ്ങൾ അത് സമാഹരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എൻക്യാഷ് ചെയ്യാം ഇത് ശരിക്കും സുഖമായി ഇരിക്കുന്നതിനുള്ള പ്രതിഫലമല്ല ഇത് നിങ്ങൾ ഉപയോഗിക്കേണ്ടതില്ലാത്ത ഒരു കാര്യം മാത്രമാണ് അതൊരു നേട്ടമാണ് കാഷ്വൽ ലീവ് വ്യവസ്ഥ ഇപ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ധാരാളം സംഘടനകൾ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് നേരിട്ട് അറിയില്ല പേഴ്സണൽ വർക്കിന് ഇത്രയധികം സമയം എടുക്കാൻ അവർ ആളുകളെ അനുവദിക്കില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അവയ്ക്ക് ലീവ്കളുടെ കർശനമായ കാറ്റഗറികളുണ്ട് കൂടാതെ ഒരു ദിവസം നിങ്ങൾക്ക് ക്ഷീണം തോന്നുന്നു നിങ്ങൾ ഔദ്യോഗികമായി വിഷാദത്തിലല്ല അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ ഉൽപ്പാദനക്ഷമത വളരെ ഉയർന്നതായിരിക്കില്ല നിങ്ങളുടെ എനർജി വീണ്ടെടുക്കാൻ കുറച്ച് സമയമെടുത്താൽ മതി ഇന്ത്യയിൽ കാഷ്വൽ ലീവ് എന്ന ആശയം നമുക്കുണ്ട് കൂടാതെ സർക്കാർ മേഖലയിൽ ചില സ്ഥാപനങ്ങളിൽ ഞങ്ങൾക്ക് പ്രതിമാസം ഒരു കാഷ്വൽ ലീവ് അനുവദിച്ചിട്ടുണ്ട് അത് നല്ലതാണെന്ന് ഞാൻ കരുതുന്നു തീർച്ചയായും ഞങ്ങൾ മുൻകൂട്ടി അറിയിപ്പ് നൽകണം അടിയന്തരാവസ്ഥയിൽ ചെയ്യാൻ കാര്യങ്ങൾ ഉള്ളപ്പോൾ കാഷ്വൽ ലീവ് അനുവദിക്കാനാവില്ല പക്ഷേ മറ്റെല്ലാം ഓക്കേ ആണെങ്കിൽ എന്റെ എനർജി വീണ്ടെടുക്കാൻ ആയി ആ ദിവസം അവധിയെടുക്കാൻ എന്റെ ബോസ് എന്നെ അനുവദിച്ചേക്കാം എനിക്ക് വീട്ടിൽ ഇരുന്നു വായിക്കണമെന്നു മാത്രം ഞാൻ ക്ഷീണിതനാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് എനിക്ക് വീട്ടിൽ ഇരുന്ന് വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്യുകയോ വിശ്രമിക്കുകയോ വേണം അതിനാൽ അതിനെയാണ് ഞങ്ങൾ കാഷ്വൽ ലീവ് എന്ന് വിളിക്കുന്നത് നിങ്ങൾ ആളുകൾക്ക് വ്യക്തിഗത അവധി ദിനങ്ങൾ അനുവദിക്കുന്നു അതിനാൽ അവർക്ക് അസുഖം വരില്ല അല്ലാത്ത പക്ഷം അവരിൽ സമ്മർദ്ദം കുമിഞ്ഞുകൂടുകയും ഒരു ദിവസം നിങ്ങൾ വീഴുകയും ചെയ്യുന്നു അതിനാൽ ഇത്തരത്തിലുള്ള അവധി എപ്പോഴും സഹായകരമാണ് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം ജീവനക്കാരുടെ സെപറേഷൻ ഒരു ജീവനക്കാരൻ ഓർഗനൈസേഷനിൽ അംഗമാകുന്നത് അവസാനിപ്പിക്കുമ്പോൾ സെപറേഷൻ സംഭവിക്കുന്നു നിങ്ങൾ കമ്പനിയിൽ നിന്ന് ശാരീരികമായി മാറുമ്പോൾ സെപറേഷൻ സംഭവിക്കുന്നു ഒന്നുകിൽ നിങ്ങൾ ജോലി നിർത്തുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ ടേണോവർ റേറ്റ് എന്നത് ജീവനക്കാർ സ്ഥാപനം വിടുന്ന നിരക്കിന്റെ അളവാണ് ഇവ ചില ആശയങ്ങളാണ് ടേണോവർ എന്നത് ഒരു സ്ഥാപനം സൃഷ്ടിക്കുന്ന വരുമാനത്തിന്റെ അളവും സൂചിപ്പിക്കുന്നു എന്നാൽ ഹ്യൂമൻ റിസോഴ്സ് അടിസ്ഥാനത്തിൽ ടേണോവർ നിരക്ക് എന്നത് ആളുകളുടെ എണ്ണത്തെയോ ജീവനക്കാർ സ്ഥാപനം വിടുന്ന നിരക്കിനെയോ സൂചിപ്പിക്കുന്നു ഒരു വർഷമോ മൂന്ന് മാസമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊരു കാലയളവിൽ എത്ര ആളുകൾ വന്നു പോകുന്നു ജീവനക്കാരുടെ സെപറേഷന്റെ പ്രയോജനങ്ങൾ കുറഞ്ഞ തൊഴിൽ ചെലവാണ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ വളരെ മോശമായി പെരുമാറുന്നുവെന്ന് നിങ്ങൾ പറയും പക്ഷേ ഉയർന്ന ശമ്പളം വാങ്ങുന്ന മുതിർന്ന ജീവനക്കാർ സ്ഥാപനം വിടുമ്പോൾ നിങ്ങൾ ജൂനിയർ ജീവനക്കാരെ നിയമിക്കുന്നു കൂടാതെ വളരെ മുതിർന്ന ഒരു ജീവനക്കാരൻ വഹിക്കുന്ന സ്ഥാനത്തേക്ക് ജൂനിയർ വ്യക്തി വരുന്നു ഈ മുഴുവൻ മാറ്റവും സംഭവിക്കുമ്പോൾ വളരെ സീനിയർ ആയ ജീവനക്കാരന്റെ ആ സ്ഥാനത്തേക്ക് മാറുന്ന വ്യക്തിക്ക് ഉയർന്ന ശമ്പളം പെട്ടെന്ന് ലഭിക്കുന്നില്ല കുറച്ച് കാലതാമസമുണ്ടാകും ആ വ്യക്തിക്ക് റാങ്കുകളിലൂടെ കടന്നുപോകേണ്ടതുണ്ട് ഒരുപക്ഷേ കമ്പനിയിൽ കുറച്ച് സമയം ചിലവഴിച്ച് പിന്നെ ഉയർന്ന ശമ്പളത്തിന്റെ ആ പോയിന്റിലെത്താം പക്ഷേ ആ സമയത്ത് കുറച്ച് മാസങ്ങളായി നിങ്ങൾക്കറിയാലോ എല്ലാവരും പുതുതായി തുടങ്ങുകയാണ് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ആളുകൾ മാറുകയാണ് കൂടാതെ നിങ്ങൾക്ക് ഒരു പുതിയ വ്യക്തിയെ ലഭിക്കുന്നു പരിശീലനച്ചെലവുകൾ ഉൾപ്പെടെയുള്ള ഓപ്പറേഷൻ നടത്തിപ്പിനുള്ള നിങ്ങളുടെ മൊത്തം ചെലവ് കുറച്ച് മാസത്തേക്ക് ചെറിയ തോതിൽ കുറഞ്ഞേക്കാം അല്ലെങ്കിൽ ജീവനക്കാർ സ്വമേധയാ പോകുമ്പോൾ ഞങ്ങൾ ആളുകൾക്ക് അധിക ജോലി നൽകുന്നു പക്ഷേ ഒരു അധിക വ്യക്തിയുടെ ശമ്പളം ഞങ്ങൾ അവർക്ക് നൽകുന്നില്ല അതിനാൽ നാമെല്ലാവരും കുറച്ച് അധിക ജോലികൾ ഏറ്റെടുക്കുന്നു ആനുകൂല്യങ്ങളൊന്നുമില്ല അധിക ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ല അല്ലെങ്കിൽ ഭാഗികമായി ലഭിച്ചേക്കാം പക്ഷേ ഓപ്പറേഷൻ നടത്തുന്നതിനുള്ള മൊത്തത്തിലുള്ള ചെലവ് കുറയുകയും ഞങ്ങൾ അത് നിയന്ത്രിക്കുകയും ചെയ്യുന്നു അതിനാൽ തൊഴിൽ ചെലവ് കുറഞ്ഞേക്കാം മോശം പ്രകടനം മാറ്റിസ്ഥാപിക്കുന്നത് സെപറേഷന്റെ മറ്റൊരു നേട്ടമാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കാത്ത ജീവനക്കാരോട് പിരിഞ്ഞുപോകാൻ ആവശ്യപ്പെടണം മോശം പ്രകടനം എല്ലായ്പ്പോഴും ഓർഗനൈസേഷന്റെ വിഭവങ്ങൾ ഓർഗനൈസേഷന്റെ മനോവീര്യം ഓർഗനൈസേഷന്റെ ഉൽപ്പാദനക്ഷമത ലാഭക്ഷമത എന്നിവയിൽ ഒരു ചോർച്ചയാണ് അതിനാൽ ആളുകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് പ്രകടനം നടത്താത്ത ആളുകളോട് ഒന്നുകിൽ സ്വമേധയാ പോകണം അല്ലെങ്കിൽ പോകാൻ ആവശ്യപ്പെടണം ഇത് എല്ലായ്പ്പോഴും ഓർഗനൈസേഷനെ സഹായിക്കുന്നു മറ്റൊന്ന് വർധിച്ച നവീകരണമാണ് നമ്മൾ ദീർഘകാലം സേവിക്കുന്ന ഒരു ഓർഗനൈസേഷനിൽ ഉള്ള ആശയങ്ങളും ആവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആവർത്തിക്കുന്നവരായി മാറാം വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ തുറന്നുകാട്ടിയ ആളുകളെ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പുതിയ കാര്യങ്ങൾ സംഭവിക്കുന്നു അവർ പുതിയ അനുഭവങ്ങളും പുതിയ ആശയങ്ങളും കൊണ്ടുവരുന്നു അതിനാൽ സ്ഥലം നിശ്ചലമാകില്ല സ്തംഭനാവസ്ഥ തടയുക എന്നത് ഒരു ആവശ്യമാണ് ചില ഐഐടികളിൽ ചില ഐഐഎമ്മുകളിൽ അവർ സ്വന്തം പിഎച്ച്ഡി വിദ്യാർത്ഥികളെ ഫാക്കൽറ്റിയായി ഉടനടി റിക്രൂട്ട് ചെയ്യുന്നില്ല പിഎച്ച്ഡി നേടിയ ശേഷം പുറത്തുപോകണം നിങ്ങൾ മറ്റൊരു സ്ഥാപനത്തിൽ കുറഞ്ഞത് 3 മുതൽ 5 വർഷത്തെ പരിചയം നേടേണ്ടതുണ്ട് ഒന്നുകിൽ ഗവേഷണ റോളിലോ അദ്ധ്യാപക റോളിലോ തുടർന്ന് നിങ്ങൾ നിങ്ങളുടെ മാതൃ സ്ഥാപനത്തിലേക്ക് മടങ്ങുക ഞങ്ങളിൽ പലരും പിഎച്ച്ഡി നേടിയ സ്ഥലത്ത് തുടരാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് ഞങ്ങളുടെ കംഫർട്ട് സോൺ ആണ് ഇവിടുത്തെ അധ്യാപകരെ നമുക്കറിയാം ഞങ്ങൾ ഒരു കുടുംബമാണ് പക്ഷേ പല ഐഐടികളും ഐഐഎമ്മുകളും ആളുകൾ സ്തംഭനാവസ്ഥയിലാകും എന്ന ലളിതമായ കാരണത്താൽ ഇത് അനുവദിക്കുന്നില്ല ഒരേ ആശയങ്ങൾ തുടരുന്നു അതേ രീതിയിൽ ഞങ്ങൾ ഒരേ തരത്തിലുള്ള ഗവേഷണം നടത്തുന്നു ഞങ്ങൾ കാര്യങ്ങളെ അതേ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് അതിനാൽ ഒരു നവീകരണവും നടക്കുന്നില്ല ആളുകൾ സംഘടനയിൽ നിന്ന് പുറത്തുപോകുമ്പോൾ വ്യത്യസ്ത അനുഭവങ്ങളുള്ള പുതിയ ആളുകൾ വരുന്നു കൂടാതെ അത് പുതിയ കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യാനുള്ള പുതിയ വഴികൾ എന്നിവയിൽ കലാശിക്കുന്നു കൂടാതെ അത് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വളരെയധികം സമ്പന്നത നൽകുന്നു നിങ്ങൾക്ക് മുമ്പ് അറിയാത്ത ദിശകളിലേക്ക് പോകാം കൂടാതെ അത് വലിയ വൈവിധ്യത്തിന് ഒരു അവസരം നൽകുന്നു ജീവനക്കാരെ വേർപെടുത്തുന്നതിൽ ചില ചെലവുകൾ ഉൾപ്പെടുന്നു വീണ്ടും ഞങ്ങൾ റിക്രൂട്ട്മെന്റ് ചർച്ചചെയ്തപ്പോൾ ഇത് ചർച്ചചെയ്തു അതിനാൽ ഞാൻ അതിലേക്ക് അധികം പോകില്ല നിങ്ങൾക്കായി ഒരു ചെറിയ റിവിഷൻ മാത്രം ആളുകൾ ഓർഗനൈസേഷനിൽ നിന്ന് പുറത്തുപോകുമ്പോൾ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ചിലവുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചിലവുണ്ട് പുതിയ ജീവനക്കാരെ പരിശീലിപ്പിക്കുന്നതിന് ചില ചെലവുകൾ ഉൾപ്പെടുന്നു കൂടാതെ നിങ്ങൾ ആനുകൂല്യങ്ങൾ നൽകേണ്ട ഒരു വേർപിരിയൽ ചെലവുണ്ട് നിങ്ങൾ ആ വ്യക്തിക്ക് ശമ്പളം നൽകണം നിങ്ങൾ അവർക്ക് ചില വിഭജന ആനുകൂല്യങ്ങൾ നൽകണം തൊഴിലില്ലായ്മ ഇൻഷുറൻസിന്റെ ചെലവും നിങ്ങൾ വഹിക്കേണ്ടതുണ്ട് അത് എന്താണെന്ന് ഒരു മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങളോട് പറയും ചില ഓർഗനൈസേഷനുകളിൽ നിങ്ങൾക്ക് ഒരു എക്സിറ്റ് അഭിമുഖം ആവശ്യമാണ് അതിനാൽ ഇതിന് സമയമെടുക്കും ആളുകൾ ഇരുന്ന് കമ്പനിയോട് അവർ എന്തിനാണ് പോകുന്നത് എന്നും കമ്പനിയെക്കുറിച്ച് അവർക്ക് എന്താണ് തോന്നിയതെന്നും പറയണം അതിനെയാണ് എക്സിറ്റ് അഭിമുഖം എന്ന് വിളിക്കുന്നത് പ്ലേസ്മെന്റ് ഇല്ലാതെ നിങ്ങൾ അവരെ സഹായിക്കേണ്ടി വന്നേക്കാം അതാണ് സായുധ സേന ചെയ്യുന്നത് അതിനാൽ നിങ്ങൾക്ക് ഔട്ട്പ്ലേസ്മെന്റ് സഹായം ഉണ്ട് അതിനാൽ അവർ പോകാൻ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ അവർക്ക് നൽകുന്ന ഒരു റീ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഔട്ട്പ്ലേസ്മെന്റ് തരത്തിലുള്ള സഹായമുണ്ട് നിങ്ങൾ പറയും ശരി നിങ്ങളുടെ കഴിവുകൾ അനാവശ്യമാണ് പക്ഷേ നിങ്ങൾ ഒരു നല്ല ജോലിക്കാരനായതിനാൽ സ്ഥാനം ലഭിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും പക്ഷേ അതിനും പണം ചിലവാകും കൂടാതെ ഒരു സ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്നു കൂടാതെ ഈ കാര്യങ്ങൾ ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് അതിനാൽ ഞാൻ ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല വ്യത്യസ്ത തരം സെപറേഷൻകൾ ഉണ്ട് വോളണ്ടറി സെപറേഷൻ ഉണ്ടാകാം കൂടാതെ ഇൻവോളണ്ടറി സെപറേഷൻ ഉണ്ടാകാം വ്യക്തിപരമോ തൊഴിൽപരമോ ആയ കാരണങ്ങളാൽ തൊഴിലുടമയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ ഒരു ജീവനക്കാരൻ തീരുമാനിക്കുമ്പോൾ വോളണ്ടറി സെപറേഷൻ സംഭവിക്കുന്നു നിങ്ങൾ പറയും വിരമിക്കൽ വോളണ്ടറി സെപറേഷൻ അല്ല എന്ന് അതിർത്തിയിലാണ് അത് നിയമപ്രകാരം നിങ്ങൾ ജോലിസ്ഥലം വിട്ടുപോകേണ്ടതുണ്ട് ജോലിസ്ഥലം വിട്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങൾ അത് വളരെയധികം ആസ്വദിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് 65 അല്ലെങ്കിൽ 60 അല്ലെങ്കിൽ 58 വയസ്സാകുമ്പോൾ നിങ്ങളുടെ വിരമിക്കൽ പ്രായം എന്തായാലും നിങ്ങൾ പോകണം നിങ്ങൾ ജോലിസ്ഥലത്ത് ചേരുന്നത് വിരമിക്കൽ ഈ പ്രായത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് ആണ് അതിനാൽ ഇത് വോളണ്ടറി സെപറേഷൻ ആയി കണക്കാക്കുന്നു ഉപേക്ഷിക്കുന്നത് മറ്റൊന്നാണ് വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചേക്കാം അത് വോളണ്ടറി സെപറേഷൻ ആയി കണക്കാക്കുന്നു നിങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു ഞാൻ ജോലി ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്നു ഒന്നുകിൽ ഞാൻ ജോലി നിർത്തുകയോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒന്നിലേക്ക് നീങ്ങുകയോ ചെയ്യും സാമ്പത്തിക ആവശ്യകതയോ ജീവനക്കാരനും ഓർഗനൈസേഷനും തമ്മിലുള്ള മോശം അനുയോജ്യതയോ കാരണം ഒരു ജീവനക്കാരനുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ മാനേജ്മെന്റ് തീരുമാനിക്കുമ്പോൾ ഇൻവോളണ്ടറി സെപറേഷൻ സംഭവിക്കുന്നു സ്ലൈഡിലെ പൊരുത്തക്കേടിൽ ഞാൻ ഖേദിക്കുന്നു ഇത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ എ ബി എന്നിവ ആയിരിക്കണം അതിനാൽ നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും അനുയോജ്യമല്ലാത്തതിനാൽ ജീവനക്കാരനെ പുറത്താക്കാൻ നിങ്ങൾ തീരുമാനിച്ചേക്കാം മോശം ഫിറ്റ് എന്നത് മോശം പ്രകടനമോ അസ്വീകാര്യമായ പെരുമാറ്റമോ ആണ് അതിനാൽ അപ്പോഴാണ് നിങ്ങൾ ജീവനക്കാരനോട് പോകാൻ ആവശ്യപ്പെടാൻ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഒരു കൂട്ടം ജീവനക്കാരെ പിരിച്ചുവിടാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചെറുതാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നതുപോലെ ആവശ്യം കാരണം ചെലവ് കുറയ്ക്കുന്നതിനും കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും നിലവിലെ ജീവനക്കാർക്കിടയിൽ ഉത്തരവാദിത്തത്തിന്റെ പുനർവിന്യാസം നടത്തുന്നു ഈ ജീവനക്കാർക്ക് ഉണ്ടായിരുന്ന കഴിവുകൾ നിങ്ങൾക്ക് ആവശ്യമില്ല സാങ്കേതികവിദ്യയുടെ ഉദാഹരണമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഉദാഹരണത്തിന് സ്റ്റോറേജ് ഉപകരണങ്ങൾ നിങ്ങൾക്കറിയാം അത്തരമൊരു അത്ഭുതകരമായ ഉദാഹരണമാണിത് പല പ്രഭാഷണങ്ങളിലും ഇത് ഉപയോഗിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ഓഡിയോ കാസറ്റുകളിൽ നിന്ന് സിഡികളിലേക്ക് ഡിവിഡികളിലേക്ക് പെൻഡ്രൈവുകളിലേക്ക് ക്ലൌഡിലേക്ക് ഓഡിയോ കാസറ്റുകൾ വന്നു പോയി കമ്പ്യൂട്ടറിനുള്ള സംഭരണ ഉപകരണങ്ങൾ അത് ഓഡിയോ കാസറ്റുകളിൽ നിന്നാണ് ആരംഭിച്ചത് നിങ്ങളിൽ എത്രപേർക്ക് ആ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നുവെന്ന് എനിക്കറിയില്ല നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം ഉണ്ടാക്കും നിങ്ങളുടെ ടെലിവിഷൻ സ്ക്രീനായും നിങ്ങളുടെ ഓഡിയോ കാസറ്റ് പ്ലേയർ സ്റ്റോറേജ് ഉപകരണമായും ഉപയോഗിക്കുന്നു നിങ്ങൾ മൂന്നും ബന്ധിപ്പിക്കുകയും ഒരു പ്രോഗ്രാം ടൈപ്പുചെയ്യാൻ മണിക്കൂറുകൾ ചെലവഴിക്കുകയും ചെയ്യുന്നു കൂടാതെ റെക്കോർഡിംഗ് സമയത്ത് പെട്ടെന്ന് പവർ കട്ട് ഉണ്ടാകും രണ്ടോ രണ്ടര മണിക്കൂറോ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറുകളോ എടുത്ത ഈ പ്രയത്നമെല്ലാം പാഴാവുന്നു അങ്ങനെയാണ് വളരെക്കാലം മുമ്പ് കമ്പ്യൂട്ടർ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ പഠിച്ചത് പിന്നെ തീർച്ചയായും ഇതിൽ വളരെ വ്യതിയാനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഈ ഫ്ലോപ്പി ഡിസ്കുകൾ ഉണ്ടായിരുന്നു കൂടാതെ ഞങ്ങൾക്ക് 3 12 ഇഞ്ച് ഡിസ്കുകൾ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് പെൻഡ്രൈവുകൾ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഡിവിഡികളും സിഡികളും ഉണ്ടായിരുന്നു കൂടാതെ ഇതെല്ലാം വന്നു പിന്നെ പെട്ടെന്ന് ഈ ക്ലൌഡ് സാങ്കേതികവിദ്യ ഉണ്ടായി അതിനാൽ ഹാർഡ് ഡ്രൈവുകൾ എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവുകൾ നമ്മളിൽ പലരും പോക്കറ്റിൽ അവ കൊണ്ടുപോകുന്നു കൂടാതെ ഇനി ആർക്കും യഥാർത്ഥ ഫ്ലോപ്പി ഡിസ്കുകൾ കാണാൻ കഴിയില്ല ഇനി അവ ഉപയോഗിക്കുന്ന ഒരു യന്ത്രവും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതിനാൽ ആവശ്യകത സാങ്കേതികവിദ്യയെ മാറ്റുന്നു കൂടാതെ അവ എങ്ങനെ നിർമ്മിക്കാമെന്നും എങ്ങനെ ഉപയോഗിക്കാമെന്നും അറിയാവുന്ന ഒരു കൂട്ടം ആളുകൾ വളരെ വിരളമാണ് അതിനാൽ അവരെ പിരിച്ചുവിടണം റിട്ടയർമെന്റിലേക്കും വിരമിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന വിവിധ ആനുകൂല്യങ്ങളിലേക്കും നമുക്ക് വരാം അവർക്ക് പെൻഷൻ കൊടുക്കാം പെൻഷൻ എന്നത് നിങ്ങൾ അവർക്ക് ഉറപ്പുനൽകുന്നതാണ് അത് അവർ സേവനത്തിലായിരിക്കുമ്പോൾ സമ്പാദിച്ചതിന്റെ ശതമാനമാണ് ഒരു നിശ്ചിത വരുമാനമാണ് കൂടാതെ അവരുടെ ജീവിതാവസാനം വരെ ഈ വരുമാനം നിങ്ങൾ അവർക്ക് ഉറപ്പുനൽകുന്നു അതിനാൽ നിങ്ങൾ അവരോട് പറയുന്നു ശരി ഞങ്ങൾ നിങ്ങളെ പരിപാലിക്കും കൂടാതെ ഇത് ഇന്ത്യയിലും മറ്റ് ചില രാജ്യങ്ങളിലും നടപ്പിലാക്കുന്ന ഒരു സാമൂഹിക സുരക്ഷയാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നന്നായി നിർവചിക്കപ്പെട്ട സംഭാവനയും ഉണ്ടായിരിക്കാം എക്സ്ക്യൂസ് മീ സർക്കാർ മേഖലയിൽ ഇതുപോലെയുള്ള ചിലത് ഞങ്ങൾക്കുണ്ട് അവിടെ സർക്കാർ നിങ്ങളെ ഒരു പെൻഷൻ പദ്ധതിയിലേക്ക് സംഭാവന നൽകാൻ പ്രേരിപ്പിക്കുകയോ തീരുമാനിക്കാനോ സഹായിക്കുന്നു നിങ്ങൾ സമൂഹത്തിന് ഒരു ഭാരമാകാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതിനാൽ നിങ്ങളുടെ പെൻഷൻ ഫണ്ടിലേക്ക് നിങ്ങൾ സംഭാവന ചെയ്യേണ്ട ഏറ്റവും കുറഞ്ഞ തുകയാണിത് കൂടാതെ നിങ്ങൾ അതിൽ കുറച്ച് പണം ഇടുന്നു കൂടാതെ സർക്കാർ അതിന്റെ ഒരു ശതമാനവുമായി പൊരുത്തപ്പെടുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇടണമെങ്കിൽ അധിക ഭാഗവുമായി സർക്കാർ പൊരുത്തപ്പെടില്ല പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും നിങ്ങൾ ഇടുന്നു കൂടാതെ നിങ്ങളുടെ മൊത്തം വരുമാനത്തിന്റെ ഒരു ശതമാനവുമായി സർക്കാർ പൊരുത്തപ്പെടുത്തുകയും ഈ പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുകയും ചെയ്യുന്നു കൂടാതെ നിങ്ങൾ വിരമിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ തുക ലഭിക്കും ഒന്നുകിൽ നിങ്ങൾക്ക് എല്ലാം ഒരുമിച്ച് ലഭിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തവണകളായി ലഭിക്കും അതിനാൽ വ്യത്യസ്ത ഓർഗനൈസേഷനുകൾക്ക് ഇത്തരത്തിലുള്ള സംഭാവന നന്നായി നിർവചിക്കപ്പെട്ട പെൻഷൻ പ്ലാൻ അല്ലെങ്കിൽ സംഭാവന പദ്ധതി ഉണ്ട് തുടർന്ന് നിങ്ങൾക്ക് പിരിച്ചുവിടലുകൾ ഉണ്ടാകും നിങ്ങൾ ആളുകളോട് ഇപ്പോൾ പോകാൻ ആവശ്യപ്പെടും ചെറുകിട ബിസിനസ്സുകളിലെ പിരിച്ചുവിടലുകൾ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും പിരിച്ചുവിടലിന്റെ കാരണം നിങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് വിരമിക്കൽ അർത്ഥമാക്കുന്നത് ആളുകൾ പോകുകയും അവർ ഗോൾഡൻ ഹാൻഡ് ഷേക്ക് എടുക്കുകയും ചെയ്യുന്നു അതായത് ക്ഷമിക്കണം അവർ നൽകുന്ന പണം അവർ വാങ്ങി മുന്നോട്ട് പോകുന്നു പിന്നെ നിങ്ങൾക്കും പിരിച്ചുവിടലുകൾ ഉണ്ട് പിരിച്ചുവിടലുകൾ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് പിരിച്ചുവിടൽ എന്നത് നിങ്ങൾ ആളുകളോട് പോകാൻ ആവശ്യപ്പെടുമ്പോഴാണ് അതിനാൽ പിരിച്ചുവിടലിന്റെ കാരണം നിങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ആളുകളെ പിരിച്ചുവിടുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം നിങ്ങളുടെ ജീവനക്കാർക്ക് പിരിച്ചുവിടലിനുള്ള മാനദണ്ഡം നിങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട് കൂടാതെ ആളുകളെ പിരിച്ചുവിടുന്നതിന് നിങ്ങൾ നിയമപരമായ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു പിരിച്ചുവിടൽ നടപ്പിലാക്കുന്നത് നിങ്ങൾ ജീവനക്കാരെ മുൻകൂട്ടി അറിയിക്കുക നിങ്ങൾ പിരിച്ചുവിടൽ മാനദണ്ഡങ്ങൾ വികസിപ്പിക്കുന്നു പിരിച്ചുവിട്ട ജീവനക്കാരോട് കഴിയുന്നത്ര സെൻസിറ്റീവായി നിങ്ങൾ ആശയവിനിമയം നടത്തുന്നു നിങ്ങൾ മാധ്യമ ബന്ധങ്ങളെ ഏകോപിപ്പിക്കുന്നു നിങ്ങൾ സുരക്ഷ നിലനിർത്തുന്നു കൂടാതെ പിരിച്ചുവിടലിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് നിങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾ അവരോട് അവരെ പിരിച്ചുവിടാൻ പോകുകയാണെന്ന് പറയുന്നു നിങ്ങൾ അവരെ അറിയിക്കുന്നു നിങ്ങൾ ചില മാനദണ്ഡങ്ങൾ വികസിപ്പിക്കുന്നു ഈ കാരണങ്ങളാൽ അവരെ പിരിച്ചുവിടാൻ പോകുകയാണെന്ന് നിങ്ങൾ അവരെ അറിയിക്കുന്നു ഈ വസ്തുത കഴിയുന്നത്ര സെൻസിറ്റീവായി നിങ്ങൾ അവരെ അറിയിക്കുക ഒരു ഇംഗ്ലീഷ് സിനിമയുണ്ട് ഞാനിവിടെ പേര് പറയണമോ എന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നത് ശരിയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് തോന്നുന്നു സിനിമയ്ക്ക് അപ്പ് ഇൻ ദി എയർ എന്നാണ് പേരിട്ടിരിക്കുന്നത് അവിടെ ഇത് രണ്ട് ആളുകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആളുകളെ പിരിച്ചുവിടുന്നത് ജോലിയായിട്ടുള്ള ഒരാളെക്കുറിച്ചോ ഉള്ള കഥയാണ് അത് ആ സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അത് ഇവിടെ പരാമർശിക്കുന്നത് ഉചിതമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും അയാൾ ആളുകളെ പുറത്താക്കുന്ന രീതി അയാൾ രാജ്യമെമ്പാടും നടന്ന് അവരെ പുറത്താക്കാൻ പോകുന്നുവെന്ന് ആളുകളോട് പറയലാണ് അതിനാൽ നിങ്ങൾ ആളുകളെ ഏകോപിപ്പിക്കുക കാരണം ജോലി നഷ്ടപ്പെട്ടുവെന്ന് നിങ്ങൾ പറയുമ്പോൾ ആളുകൾക്ക് വേദനിക്കും അടുത്ത ഭക്ഷണം എവിടെ നിന്ന് ലഭിക്കുമെന്ന് അവർക്കറിയില്ല സ്വന്തമായി വാങ്ങിയ വീട് നിലനിർത്താൻ കഴിയുമോ എന്നറിയില്ല കുട്ടികളെ ഒരു പ്രത്യേക സ്കൂളിലോ കോളേജിലോ ചേർക്കാൻ അവർ പദ്ധതിയിട്ടിട്ടുണ്ടാകും പെട്ടെന്ന് ആ പദ്ധതികൾ ഇല്ലാതാവുകയാണ് അതിനാൽ അവർ എന്താണ് ചെയ്യുക അവർ അത് നല്ല രീതിയിൽ എടുക്കാൻ പോകുന്നില്ല പ്രത്യേകിച്ച് നിങ്ങൾ തെറ്റുകാരനല്ലാതെയാണ് നിങ്ങളെ പിരിച്ചുവിട്ടതെങ്കിൽ അത് നിങ്ങളെ വേദനിപ്പിക്കാൻ പോകുന്നു ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുവെന്ന വാർത്ത കേൾക്കുമ്പോൾ ആളുകൾക്ക് ഹൃദയാഘാതം സംഭവിച്ചതായി അറിയാം ആളുകൾ മരിച്ചതായി അറിയാം നിങ്ങൾക്കറിയാമോ അവർ കടക്കെണിയിലാകാം കടത്തിൽ നിന്ന് കരകയറാൻ തങ്ങളെ സഹായിക്കാൻ അവർ ഈ ജോലിയെ ആശ്രയിക്കുന്നുണ്ടാകാം രോഗികളും ചെലവേറിയ വൈദ്യസഹായം ആവശ്യമുള്ളവരുമായ കുടുംബാംഗങ്ങൾ ആളുകൾക്ക് ഉണ്ടായിരിക്കാം പെട്ടെന്ന് നിങ്ങൾ അവരോട് വളരെ നന്ദി ദയവായി നാളെ മുതൽ ഓഫീസിലേക്ക് വരരുത് എന്ന് പറയുമ്പോൾ അവർ എന്താണ് ചെയ്യുന്നത് കൂടാതെ അവർ പ്രായത്തിൽ മുതിർന്നവരാണ് കൂടാതെ മറ്റാരും അവരെ ജോലിക്കെടുക്കില്ല സംഘടനയ്ക്കോ വ്യവസായത്തിനോ ചെറുപ്പക്കാരെ ആവശ്യമുള്ളതിനാൽ ഒരു നല്ല ദിവസം നിങ്ങൾ പറയുന്നു ശരി ശരി നിങ്ങൾക്ക് 50 വയസ്സായി ദയവായി പോകൂ തിരിച്ചു വരരുത് കൂടാതെ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നു എന്നത് എനിക്ക് പ്രശ്നമല്ല ഇപ്പോൾ ആയുർദൈർഘ്യം വർദ്ധിക്കുന്നതിനാൽ ആളുകൾ സജീവമാണ് 70 ഓ 80 ഓ വരെ ആളുകൾക്ക് ഉൽപാദനക്ഷമതയുള്ളവരായിരിക്കും അതിനാൽ ഈ വ്യക്തി കുറച്ച് സമയത്തിന് ശേഷം സമൂഹത്തിന് ഒരു ഭാരമായി മാറുന്നു അത് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ആളുകളോട് നല്ല രീതിയിൽ പെരുമാറണം പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മാധ്യമ ബന്ധങ്ങൾ ഏകോപിപ്പിക്കുന്നത് പിരിച്ചുവിടലിന്റെ വലുപ്പത്തെ ആശ്രയിച്ച് എത്ര പേരെ പിരിച്ചുവിടുന്നു എന്നതിനെ ആശ്രയിച്ച് പിരിച്ചുവിടലിന്റെ കാരണങ്ങളെ ആശ്രയിച്ച് മനുഷ്യാവകാശ സംഘടനകൾ നിങ്ങളെ ചുമതലപ്പെടുത്തിയേക്കാം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയധികം ആളുകളെ ബുദ്ധിമുട്ടിച്ചതെന്ന് അവർ നിങ്ങളോട് ചോദിച്ചേക്കാം കൂടാതെ ആളുകൾക്ക് നിങ്ങൾക്കെതിരെ ആയുധമെടുക്കാൻ കഴിയും പ്രത്യേകിച്ചും പിരിച്ചുവിടലിനുള്ള കാരണങ്ങൾ വേണ്ടത്ര ബോധ്യപ്പെടുന്നില്ലെങ്കിൽ കൂടാതെ അത് നിങ്ങളുടെ സ്ഥാപനത്തെ ആഴത്തിലുള്ള പ്രശ്നത്തിലേക്ക് നയിക്കും അതിനാൽ മാധ്യമ ബന്ധങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരാൾ അറിഞ്ഞിരിക്കണം കൂടാതെ ഒരാളുടെ പൊതു പ്രതിച്ഛായയ്ക്ക് ഉണ്ടാകുന്ന കേടുപാടുകൾ എങ്ങനെ കുറയ്ക്കാം എന്നും അറിഞ്ഞിരിക്കണം ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പിരിച്ചുവിടൽ എളുപ്പമല്ല സംഘടനകൾക്ക് അവ കൂടുതൽ ബുദ്ധിമുട്ടാണ് കൂടാതെ ഇത് പ്രശ്നങ്ങളിലൊന്നാണ് സുരക്ഷ നിലനിർത്തൽ നിങ്ങൾ വളരെയധികം ആളുകളെ പിരിച്ചുവിട്ടാൽ അത് നിങ്ങളുടെ സ്ഥാപനത്തിന് ഭീഷണിയായേക്കാം ഒപ്പം പിരിച്ചുവിടലിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് ഉറപ്പുനൽകുന്നു പിരിച്ചുവിടലുകളിൽ നിന്ന് രക്ഷപ്പെട്ടവരെ കൈകാര്യം ചെയ്യുന്നു അതിജീവിച്ചവരുടെ ഉത്കണ്ഠയ്ക്കുള്ള കാരണങ്ങൾ പിരിച്ചുവിടലിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിജീവിച്ചവർക്ക് അസ്വസ്ഥത തോന്നിയേക്കാം പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടാം കൂടുതൽ ജോലി ഉണ്ടായേക്കാം അസ്വാസ്ഥ്യകരമായ മാറ്റങ്ങൾ ഉണ്ടായേക്കാം സംഭാവനയുടെ സ്വയം വിലയിരുത്തൽ ഉണ്ടാകാം കുറ്റബോധം ഉണ്ടാകാം വിഷാദം ഉണ്ടാകാം അതിനാൽ ഇവയെല്ലാം സംഭവിക്കാം അവശേഷിച്ചിരിക്കുന്ന ആളുകളുടെ ഉത്കണ്ഠ വർദ്ധിപ്പിക്കും ഇപ്പോൾ അതിജീവിച്ചവരുടെ മനോവീര്യവും പ്രകടനവും എങ്ങനെ നിലനിർത്താം നിങ്ങൾക്ക് നിയന്ത്രിക്കാനാകുന്ന കാര്യങ്ങൾ നിങ്ങൾ അവരെ അറിയിക്കുന്നു നിങ്ങൾക്ക് നിയന്ത്രിക്കാനാകുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ അവരെ സഹായിക്കുന്നു നിങ്ങൾ ജീവനക്കാരെ അഭിനന്ദിക്കുകയും ജോലി രസകരമാക്കുകയും വേണം അവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും വേണം കൂടാതെ നിങ്ങൾ ജീവനക്കാരെ അവരുടെ ജോലിയുടെ പ്രാധാന്യം കാണിക്കാൻ സഹായിക്കേണ്ടതുണ്ട് പിരിച്ചുവിടലുകൾക്ക് ചില ബദലുകൾ നിങ്ങൾക്ക് തൊഴിൽ നയങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് പിരിച്ചുവിടൽ കുറയ്ക്കാം പരസ്പര പ്രശ്നം കാരണമുള്ള പിരിച്ചുവിടലുകൾ കുറയ്ക്കുന്നതിന് തൊഴിൽ നയങ്ങൾ ഉപയോഗിക്കാം നിയമനം മരവിപ്പിച്ചേക്കാം വെട്ടികുറക്കലുകൾ ഉണ്ടാകാം നിങ്ങൾക്ക് പാർട്ട് ടൈം ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാം നിങ്ങൾക്ക് ഇന്റേൺഷിപ്പുകളോ കോ ഓപ്പുകളോ വെട്ടിക്കുറയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ ഹൌസ് ജീവനക്കാർക്ക് സബ് കോൺട്രാക്റ്റ് ജോലി നൽകാം നിങ്ങൾക്ക് അവർക്ക് സ്വമേധയാ അവധി നൽകാം നിങ്ങൾക്ക് അവരെ കുറച്ച് സമയമെടുത്ത് തിരികെ വരാൻ അനുവദിക്കാം നിങ്ങൾക്ക് അവർക്ക് അവധി നൽകാനും കഴിയും കൂടാതെ നിങ്ങൾക്ക് ജോലി സമയം കുറയ്ക്കാം അതിനാൽ ഇതരമാർഗങ്ങളിൽ ചിലതാണ് ഇവ ഈ കാര്യങ്ങൾ നിങ്ങളുടെ തൊഴിൽ നയങ്ങളിൽ ഉൾപ്പെടുത്താം കൂടാതെ നിങ്ങൾക്ക് ജോലി രൂപകൽപ്പനയിൽ ചില മാറ്റങ്ങൾ വരുത്താം നിങ്ങൾക്ക് കുറച്ച് ജീവനക്കാരെ സ്ഥലം മാറ്റുകയും അവർക്ക് വളരെയധികം ആനുകൂല്യങ്ങൾ നൽകേണ്ടതില്ലാത്ത സ്ഥലങ്ങളിൽ അവരെ ആക്കുകയും ചെയ്യാം നിങ്ങൾക്ക് അവരെ സ്ഥലം മാറ്റാം നിങ്ങൾക്ക് ജോലി പങ്കിടൽ പ്രോത്സാഹിപ്പിക്കാം ജോലി പങ്കിടുന്നതിനെക്കുറിച്ച് ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവരെ തരംതാഴ്ത്താനും കഴിയും കാരണം ഒരു ചോയ്സ് നൽകിയാൽ ജോലിയിൽ നിന്ന് പൂർണമായി പുറത്താകുന്നതിനുപകരം ഈ സമയം ശരിയാകുന്നതുവരെ കുറഞ്ഞ ശമ്പളത്തിൽ ഓർഗനൈസേഷനുമായി പ്രവർത്തിക്കുന്നത് തുടരാൻ താൽപ്പര്യപ്പെടുന്ന ചില ജീവനക്കാരുണ്ട് അതിനാൽ അവർ ഒരു തരംതാഴ്ത്തലിന് സമ്മതിച്ചേക്കാം അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ അവർ അത് സമ്മതിച്ചേക്കാം കാരണം അവർക്ക് മറ്റെവിടെയും ജോലി കണ്ടെത്താൻ കഴിയില്ല അതിനാൽ അത് ഒന്നായിരിക്കാം പേയ്മെന്റ് ബെനിഫിറ്റ് പോളിസികൾ നിങ്ങൾക്ക് ശമ്പളം മരവിപ്പിക്കാം ഞങ്ങൾ നിങ്ങൾക്ക് ഇൻക്രിമെന്റുകളൊന്നും നൽകാൻ പോകുന്നില്ലെന്ന് നിങ്ങൾക്ക് പറയാം ഞങ്ങൾ ഒരു ബോണസും നൽകാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഓവർടൈം വേതനം വെട്ടിക്കുറയ്ക്കാം വൈകി ജോലിക്ക് വരരുതെന്ന് നിങ്ങൾ അവരോട് പറയുന്നു പിന്നെ നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ശമ്പളം ലഭിക്കുന്നു കൂടാതെ നിങ്ങൾക്ക് അവധിക്കാലവും അവധി ദിവസങ്ങളും ഉപയോഗിക്കാം നിങ്ങൾക്ക് അവരുടെ അവധിക്കാലം കുറയ്ക്കാം നിങ്ങൾക്ക് ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ കഴിയും നിങ്ങൾക്ക് ലാഭ പങ്കിടൽ അല്ലെങ്കിൽ വേരിയബിൾ പേ സ്ഥാപിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനക്കാരെ പരിശീലിപ്പിക്കാനും പുനർ പരിശീലനം നൽകാനും കഴിയും ശരി ജോലി പങ്കിടുന്നതിനെക്കുറിച്ച് ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് അതിനാൽ ഞാൻ ഇനി അതിലേക്ക് കടക്കില്ല മുമ്പത്തെ ഒരു പ്രഭാഷണത്തിൽ ഞങ്ങൾ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഈ പ്രഭാഷണത്തിന്റെയും ഭാഗമാകാം അതിനാൽ അത് ഇവിടെയുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ആനുകൂല്യങ്ങൾ നൽകുന്നത് ഒരു ഫ്ലെക്സിബിൾ ബെനിഫിറ്റ് പ്രോഗ്രാം ഉപയോഗിച്ച് ഞങ്ങൾ ആനുകൂല്യങ്ങൾ നിർവ്വഹിക്കുന്നു ആനുകൂല്യങ്ങൾ നൽകുന്നതിനുള്ള ഒരു മാർഗ്ഗം ഒരു ഫ്ലെക്സിബിൾ ബെനിഫിറ്റ് പ്രോഗ്രാം ആണ് വിഷൻ കെയർ ഡെന്റൽ കെയർ ഹെൽത്ത് ഇൻഷുറൻസ് ചൈൽഡ് കെയർ മുതലായവ പോലുള്ള തൊഴിലുടമ നൽകുന്ന ആനുകൂല്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ ജീവനക്കാരെ ഫ്ലെക്സിബിൾ ബെനിഫിറ്റ് പ്രോഗ്രാം അനുവദിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഉണ്ട് കൂടാതെ ആളുകൾക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ അനുവദിക്കുന്നു ചില തരത്തിലുള്ള ഫ്ലെക്സിബിൾ ആനുകൂല്യ പദ്ധതികൾ മോഡുലാർ പ്ലാനുകളായിരിക്കാം വിവിധ ജീവനക്കാരുടെ ഗ്രൂപ്പുകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആനുകൂല്യങ്ങളുടെ വ്യത്യസ്ത ബണ്ടിലുകൾ അല്ലെങ്കിൽ വിവിധ തലത്തിലുള്ള ആനുകൂല്യ കവറേജ് ഇതിൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ നിങ്ങൾ പറയും ഈ തലത്തിലുള്ള ആളുകൾക്ക് താഴെയുള്ള മാനേജ്മെന്റിന് ഈ ആനുകൂല്യങ്ങളുടെ ബണ്ടിൽ ലഭിക്കും മിഡിൽ മാനേജ്മെന്റ് ആളുകൾക്ക് അവരുടെ മക്കൾക്ക് ട്യൂഷൻ ഫീസ് നൽകാനോ അല്ലെങ്കിൽ അവരുടെ പ്രായമായ മാതാപിതാക്കളെ പരിപാലിക്കാനോ അവധിക്കാല ആനുകൂല്യങ്ങൾ കുറയ്ക്കാനോ അവർക്ക് കൂടുതൽ നൽകാം അവർക്ക് അത് ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവരുടെ ആവശ്യങ്ങൾ അവരുടെ ജനസംഖ്യാ സ്ഥിതി കുടുംബ വലുപ്പം കുടുംബ ഘടന കുടുംബ ആവശ്യങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും അതിനാൽ ഈ കാര്യങ്ങൾ അവർക്ക് കൂടുതൽ സഹായകമായേക്കാം അതിനാൽ ഉദാഹരണത്തിന് 30 നും 40 നും ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ 30 നും 50 നും ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് മാതാപിതാക്കളുടെയും കുട്ടികളുടെയും പരിചരണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങളും അവധിക്കാലത്തിന്റെ കാര്യത്തിൽ കുറഞ്ഞ ആനുകൂല്യങ്ങളും ലഭിക്കും പിന്നെ 50 വയസ്സിനു ശേഷം നമ്മിൽ മിക്കവർക്കും മാതാപിതാക്കളിൽ ഒന്നോ രണ്ടോ പേരെ നഷ്ടപ്പെട്ടു അതിനാൽ ഈ ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് അത്ര അർത്ഥമാക്കുന്നില്ല 60 വയസ്സിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ അവധിക്കാല ആനുകൂല്യങ്ങൾ ലഭിക്കും ഉദാഹരണത്തിന് ഇണയെ പരിപാലിക്കുക അല്ലെങ്കിൽ ആ സമയത്ത് കൂടുതൽ ആരോഗ്യ ആനുകൂല്യങ്ങൾ അതിനാൽ ഇതൊരു മോഡുലാർ പ്ലാൻ ആണ് വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത ബണ്ടിലുകൾ വിവിധ കാര്യങ്ങളെ ആശ്രയിച്ച് വ്യത്യസ്ത ഗ്രൂപ്പുകൾ കോർ പ്ലസ് ഓപ്ഷൻ പ്ലാനുകളിൽ അവശ്യ ആനുകൂല്യങ്ങൾ ആരോഗ്യ ആനുകൂല്യങ്ങൾ ശിശു സംരക്ഷണം കുടുംബ സംരക്ഷണം അവധിക്കാലം അല്ലെങ്കിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പരിശീലനം അല്ലെങ്കിൽ കിഴിവുകൾ മുതലായവ ഉൾപ്പെടുന്നു അതിനാൽ ഒരു കോർ സെറ്റ് ഇതാണ് നിങ്ങൾക്ക് ലഭിക്കുക തുടർന്ന് നിങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കാം ഫ്ലെക്സിബിൾ സ്പെൻഡിങ് അക്കൌണ്ടുകൾ തൊഴിലുടമയോ ജീവനക്കാരനോ അല്ലെങ്കിൽ ഇരുവരും ചേർന്ന് ഫണ്ട് ചെയ്യുന്ന വ്യക്തിഗത ജീവനക്കാരുടെ അക്കൌണ്ടുകൾ അതിനാൽ നിങ്ങൾക്ക് ചെലവ് അക്കൌണ്ടുകൾ ഉണ്ടായിരിക്കാം കൂടാതെ ഇത് എന്റെ ചെലവ് അക്കൌണ്ടാണെന്ന് നിങ്ങൾ പറയും പണം എവിടെ പോകുന്നു എന്ന് ഞാൻ ചോദിക്കില്ല നിങ്ങൾ അത് എങ്ങനെ വേണമെങ്കിലും ചെലവഴിക്കും കൂടാതെ ഇത് പടിഞ്ഞാറ് വളരെ വ്യാപകമാണ് അതിനാൽ ഒന്നുകിൽ നിങ്ങൾ ആനുകൂല്യം എടുക്കുക അല്ലെങ്കിൽ അതിന് പകരമായി പണം എടുക്കുക കൂടാതെ അത് നിങ്ങൾക്ക് സഹായകമായേക്കാം ചില വെല്ലുവിളികൾ ഒന്ന് പ്രതികൂലമായ തിരഞ്ഞെടുപ്പാണ് ഒരു ജീവനക്കാരൻ ശരാശരി ജീവനക്കാരനെക്കാൾ ഒരു പ്രത്യേക ആനുകൂല്യം ഉപയോഗിക്കുമ്പോൾ ഉദാഹരണത്തിന് അവധി ദിവസങ്ങൾ അല്ലെങ്കിൽ കോസ്മെറ്റിക് സർജറി അല്ലെങ്കിൽ ദന്ത സംരക്ഷണം മുതലായവ ആർക്കെങ്കിലും ദന്ത സംരക്ഷണം നൽകിയാൽ നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ചെലവഴിക്കാം ആ വ്യക്തി ദന്ത സംരക്ഷണം മാത്രം ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു കൂടാതെ അവരുടെ പല്ലുകളിൽ ബ്രേസുകൾ ഉറപ്പിക്കുന്നു അതായത് അവർക്ക് മുഴുവൻ കാര്യങ്ങളും ലഭിക്കും കൂടാതെ ഇത് ചെന്ന് അവസാനിക്കുക അവരുടെ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിന് കമ്പനി ചിലവഴിക്കുന്ന ശരാശരി ചെലവിനേക്കാൾ വളരെ കൂടുതലായിട്ടാണ് അതിനാൽ അതിനെ പ്രതികൂല തിരഞ്ഞെടുപ്പ് എന്ന് വിളിക്കുന്നു മോശം തിരഞ്ഞെടുപ്പുകൾ നടത്തുകയും പിന്നീട് ഖേദിക്കുകയും ചെയ്യുന്ന ജീവനക്കാർ അതിനാൽ ഇത് ഒരു ബാസ്കറ്റ് ആണ് അതിനാൽ നാമെല്ലാവരും പ്രലോഭിപ്പിക്കപ്പെടുന്നു പിന്നെ നിങ്ങൾക്കറിയാമോ ഞാൻ പറയും ശരി ഗംഭീരം ഞാൻ ഇത് ചെയ്തു തരാം അത് ചെയ്തു തരാം പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു ദൈവമേ ഞാൻ ഒരു മോശം തിരഞ്ഞെടുപ്പ് നടത്തി എന്നിട്ട് നിങ്ങൾക്ക് തിരികെ പോയി ദയവായി എനിക്ക് മറ്റെന്തെങ്കിലും തരൂ എന്ന് പറയാനാവില്ല നിങ്ങൾ ഇത് ഇതിനകം ഉപയോഗിച്ചു അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകം തന്നെ ഇത് തീരുമാനിച്ചു കമ്പനി അതിനായി ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഭരണപരമായ സങ്കീർണ്ണത പ്രത്യേകിച്ച് വിവിധ ആനുകൂല്യങ്ങളുടെ തുല്യത നിർണ്ണയിക്കുമ്പോൾ ഏത് മിശ്രിതം എന്തിന് തുല്യമായിരിക്കും എന്ന് നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും അതിനാൽ ദന്ത സംരക്ഷണവും ശിശു സംരക്ഷണവും വയോജന പരിചരണവും അവധിക്കാലവും പരസ്പരം തുല്യമായിരിക്കില്ല ഇന്നയാൾ ഇത്രയധികം അവധികൾ എടുക്കുന്നുണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും അല്ലെങ്കിൽ ഈ വ്യക്തി ദന്തസംരക്ഷണത്തിനായി വളരെയധികം ചെലവഴിക്കുന്നു എന്തുകൊണ്ടാണ് എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിർണ്ണയിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ എന്റെ പ്രായമായ മാതാപിതാക്കളെ പരിപാലിക്കുന്നതിനായി എനിക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് എന്റെ വിദ്യാഭ്യാസ ഫീസിനായി അതേ തുക ചെലവഴിക്കാൻ കഴിയാത്തത് ഒന്നുകിൽ ഒരു വർഷത്തെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു വർഷത്തെ ദന്ത സംരക്ഷണം കൂടാതെ ഒരു വർഷത്തെ വിദ്യാഭ്യാസത്തിന് ഒരു വർഷത്തെ ദന്ത സംരക്ഷണത്തേക്കാൾ വളരെ കുറവായിരിക്കും അതിനാൽ അത് ഒരു പ്രശ്നമാകാം നിങ്ങൾക്ക് തൊഴിലില്ലായ്മ ഇൻഷുറൻസും ഉണ്ടായിരിക്കാം തൊഴിലില്ലായ്മ ഇൻഷുറൻസ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്വമേധയാ തൊഴിലില്ലായ്മയുടെ കാലഘട്ടത്തിൽ ആളുകൾക്ക് താൽക്കാലിക വരുമാനം നൽകുന്നതാണ് ഇത് തൊഴിലില്ലായ്മ ഇൻഷുറൻസ് നിരസിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ചില വ്യവസ്ഥകൾ സ്വമേധയാ ജോലി ഉപേക്ഷിക്കുന്ന ഒരു ജീവനക്കാരനാണ് ആരെങ്കിലും ജോലി ഉപേക്ഷിക്കുന്നു അവർക്ക് തൊഴിലില്ലായ്മ ഇൻഷുറൻസ് നൽകാൻ നിങ്ങൾ നിയമപ്രകാരം ബാധ്യസ്ഥരല്ല മോശമായ പെരുമാറ്റത്തിന് പുറത്താക്കപ്പെട്ട ഒരു ജീവനക്കാരൻ നിങ്ങൾ അവർക്ക് തൊഴിലില്ലായ്മ ഇൻഷുറൻസ് നൽകേണ്ടതില്ല അനുയോജ്യമായ ജോലി വാഗ്ദാനം നിരസിക്കുന്ന ഒരു ജീവനക്കാരൻ നിങ്ങൾ വ്യക്തിയോട് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറയുന്നു ആ വ്യക്തി പറയുന്നു ഇല്ല ഞാൻ അത് ചെയ്യില്ല അത് ഉചിതവും അനുയോജ്യവുമായ ജോലിയും കൂടാതെ ആ വ്യക്തി യോഗ്യനുമായിട്ടും പറ്റില്ലെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ വിട്ടയക്കാം കൂടാതെ നിങ്ങൾ അവർക്ക് തൊഴിലില്ലായ്മ ഇൻഷുറൻസ് നൽകേണ്ടതില്ല നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിലോ സ്ഥാപനത്തിനോ രാജ്യത്തിനോ പൊതുനന്മയ്ക്കോ ഹാനികരമാണെന്ന് നിയമപരമായി കണക്കാക്കാവുന്ന പ്രവർത്തനങ്ങളിലോ ബോധപൂർവം പങ്കെടുക്കുന്ന ഒരു ജീവനക്കാരൻ ആരെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു ആരെങ്കിലും അട്ടിമറിയിൽ ഏർപ്പെടുന്നു ആരെങ്കിലും സ്ഥാപനത്തെ ദ്രോഹിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ തൊഴിലില്ലായ്മ ഇൻഷുറൻസിന് അർഹതയില്ല അനുബന്ധ തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങളും ഉണ്ടാകാം പിരിച്ചുവിടൽ സമയത്ത് അധിക ആനുകൂല്യങ്ങൾ നൽകുന്നു അതിനാൽ ചിലപ്പോൾ ഗോൾഡൻ ഹാൻഡ്ഷേക്ക് എന്ന് വിളിക്കപ്പെടുന്നു ഉദാഹരണത്തിന് ഒരു വ്യക്തിയെ പിരിച്ചുവിടുമ്പോൾ ആറ് മാസത്തെ ശമ്പളം അതിനാൽ ഇത്തരത്തിലുള്ള കാര്യവും കണക്കിലെടുക്കുന്നു ചിലപ്പോൾ ഇത് തൊഴിലില്ലായ്മ ഇൻഷുറൻസുമായി അതിർത്തി പങ്കിടുന്നു നിങ്ങൾ എങ്ങനെയാണ് തൊഴിലില്ലായ്മ ഇൻഷുറൻസ് കൈകാര്യം ചെയ്യുന്നത് ഹ്രസ്വകാല അല്ലെങ്കിൽ പരിമിതകാല പ്രതിസന്ധികളിൽ നിങ്ങൾ ഹ്രസ്വകാല ജീവനക്കാരെ നിയമിക്കുന്നു നിങ്ങൾ എല്ലാ തൊഴിലില്ലായ്മ ക്ലെയിമുകളും ഓഡിറ്റ് ചെയ്യുന്നു കൂടാതെ ഡിസ്ചാർജ് ചെയ്ത എല്ലാ ജീവനക്കാരുമായും നിങ്ങൾ എക്സിറ്റ് ഇന്റർവ്യൂ നടത്തുന്നു പിരിച്ചുവിടലിന്റെ കാരണത്തെക്കുറിച്ച് ആ ആളുമായി പരസ്പര ധാരണയിലെത്തുക അവർ അറിയട്ടെ അവരെ പിരിച്ചുവിടേണ്ടതുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുക കൂടാതെ അവർ തെറ്റായ പരാതി നൽകിയാൽ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് കമ്പനി അതിനെ പരമാവധി പ്രതിരോധിക്കുമെന്ന് അവരെ അറിയിക്കുക ഇന്നത്തെ ചർച്ചയ്ക്കുള്ള അവസാന വിഷയം ആശയവിനിമയത്തിന്റെ പ്രയോജനങ്ങൾ എന്നതാണ് ആളുകൾക്ക് എന്താണ് അർഹതയെന്നും അവർക്ക് എന്ത് അർഹതയില്ലെന്നും നിങ്ങൾ പറയണം ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളി ആനുകൂല്യ പാക്കേജുകളുടെ സങ്കീർണ്ണത വർദ്ധിപ്പിക്കുകയാണ് ഇത് എല്ലായ്പ്പോഴും മികച്ച ജീവനക്കാരെ നിലനിർത്താൻ സഹായിക്കുന്നു പക്ഷേ നിങ്ങൾ അത് എന്തുചെയ്യും നിങ്ങൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതിനാൽ അത് ഒരു വലിയ വെല്ലുവിളിയായി മാറുന്നു ഈ സങ്കീർണ്ണ പാക്കേജുകൾ ജീവനക്കാർക്ക് വിശദീകരിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ വിനിയോഗിക്കാൻ തൊഴിലുടമകളുടെ വിമുഖത അതിനാൽ നിങ്ങൾക്ക് ഒരു സങ്കീർണ്ണ പാക്കേജ് ഉണ്ട് പക്ഷേ അത് ജീവനക്കാരോട് എങ്ങനെ വിശദീകരിക്കണമെന്ന് നിങ്ങൾക്കറിയില്ല ജീവനക്കാർക്ക് എന്താണ് അർഹതയെന്ന് അറിയില്ല അവർ അത് പ്രയോജനപ്പെടുത്തുന്നില്ല കൂടാതെ പണം ലാഭിക്കാൻ പാടില്ലാത്തിടത്ത് സംഘടന പണം ലാഭിക്കുന്നു അതിനാൽ അത് അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറുന്നു കാരണം ചിലപ്പോൾ ഈ പാക്കേജുകൾ വളരെ സങ്കീർണ്ണമാണ് കൂടാതെ ആളുകൾക്ക് എന്തുചെയ്യാൻ കഴിയും എന്തുചെയ്യാൻ കഴിയില്ലെന്ന് വ്യക്തമായ രീതിയിൽ പറയേണ്ടതുണ്ട് അതിനാൽ അത് വളരെ വലിയ വെല്ലുവിളിയായി മാറുന്നു കൂടാതെ അത് വളരെ വളരെ തന്ത്രപരമായി കൈകാര്യം ചെയ്യണം അതിനാൽ ഇന്നത്തേക്ക് എനിക്കുള്ളത് ഇതാണ് കൂടാതെ അടുത്ത പ്രഭാഷണത്തിൽ കൂടുതൽ എച്ച്ആർ കാര്യങ്ങൾ ഞങ്ങൾ തുടരും ശ്രവിച്ചതിനു നന്ദി